നമസ്തേ കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ നമ്മൾ ധനകാര്യ പ്രസ്താവന വിശകലനത്തെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നുപ്രത്യേകിച്ചും കഴിഞ്ഞ സെഷനിൽ നമ്മൾ TCS കേസ് ചർച്ച ചെയ്തു നമ്മൾ സാമ്പത്തിക വിശകലനത്തെ കുറിച്ച് ക അധികം പഠിച്ചിരിക്കുന്നു TCS അനുപാതങ്ങൾ കണക്കാക്കുകയും ചെയ്തു നിലവിലെ സെക്ഷനിലും അടുത്ത് സെക്ഷനിലും നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്ഡ് പറ്റി ഉദാഹരണമായി എടുക്കുന്നുമാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാര്യത്തിൽ ഇതൊരു പ്രമുഖ ലിസ്റ്റഡ് കമ്പനി ആണെന്ന് നമുക്കറിയാം അതിനാൽ കമ്പനിയെ വ്യത്യസ്ത അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ് പാർലൻസ് അഥവാ അടിസ്ഥാന വിശകലനം എന്നും ഈ വിശകലനത്തെ പറയാം രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ട് ഒന്ന് അടിസ്ഥാനപരമായി മറ്റൊന്ന് സാങ്കേതികം സാങ്കേതിക വിശകലനത്തിൽ കമ്പനിയുടെ വിലയെ പറ്റിയുള്ള ഡാറ്റ അളവ് വിലയുടെ മാറ്റങ്ങൾ ചാർട്ടുകൾ ഇവയെല്ലാം പഠിക്കുന്നു അടിസ്ഥാന വിശകലനത്തിൽ കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നു അതിൽ പ്രധാനമായും കമ്പനിയെക്കുറിച്ചുള്ള സാമ്പത്തിക പ്രസ്താവനകളും മറ്റ് ഡാറ്റയും ഉൾപ്പെടുന്നു അടിസ്ഥാന വിശകലനത്തെ കുറിച്ചുള്ള പഠനം കമ്പനി വിശകലനം എന്നറിയപ്പെടുന്നു തുടർന്ന് വ്യവസായത്തെ കുറിച്ചോ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയെ കുറിച്ച് ഒരു പഠനം നടക്കുന്നു അതിനെ വ്യവസായ വിശകലനം എന്നും മൂന്നാമതായി സാമ്പത്തിക വിശകലനം എന്നും അറിയപ്പെടുന്നു അതിൽ രാജ്യം മുഴുവൻ അല്ലെങ്കിൽ സമ്പത്ത് വ്യവസ്ഥ മുഴുവൻ പഠനത്തിൽ ഉൾപ്പെടുത്തുന്നു ഇപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും കമ്പനിയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല പക്ഷേ പ്രധാനമായും അനുപാതങ്ങളെ അടിസ്ഥാനമാക്കി കമ്പനി വിശകലനം എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം റിലയൻസ്യിലേക്ക് നോക്കൂ ഇതിലെ എം ഡി സിഇഒ ചെയർമാൻ എന്നിവ മുകേഷ് അംബാനി ആണെന്ന് അറിയാം കമ്പനി സെക്രട്ടറി കെ സേതുരാമൻ ഓഡിറ്റർമാർ ചതുർവേദി ഷാ എന്നിവരാണ് കമ്പനിയുടെ ഫെയ്സ് വാല്യൂ 10രൂപയാണ് വില 1255 രൂപ ഇത് മെയ് മാസം 2019കണക്കാണ് ഒരാഴ്ചയിലെ ശതമാനം മാറ്റം മുതലായവ നൽകിയിരിക്കുന്നു മാർക്കറ്റ് ക്യാപ് 3161428 Million രൂപയാണ് നിങ്ങൾ കാണുന്നത് പോലെ വോളിയം വളരെ ഉയർന്നതാണ് ഇത് കമ്പനിയുടെ ഷെയറുകൾ വളരെ ലിക്വിഡ് ആണെന്ന് കാണിക്കുന്നു ഷെയറുകളുടെ എണ്ണം 6503 ദശലക്ഷം ആണ് ഇപ്പോൾ നമുക്ക് Shareholding പാറ്റേൺലേക്ക് പോകാം ഇത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് പ്രൊമോട്ടർമാരുടെ ഓഹരി പങ്കാളിത്തം 45 ആണ് ഇത് മുകേഷ് അംബാനി ഗ്രൂപ്പിൻറെതാണ് ഇന്ത്യൻ സ്ഥാപനങ്ങൾ 12 ശതമാനം വിദേശ സ്ഥാപന നിക്ഷേപകർ 18 ശതമാനവും ആണ് അവർ വിദേശത്ത് സെക്യൂരിറ്റികൾ നൽകിയിട്ടുണ്ട് അതിനാലാണ് ADR അല്ലെങ്കിൽ GDR 3 2 ശതമാനം ഫ്രീ ഫ്ലോട്ട് 20 ശതമാനം ഫ്രീ ഫ്ലോട്ട് വിപണിയിൽ സ്വതന്ത്രമായി ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകൾ ആണ് ഇവ ഏകദേശം 20 ശതമാനം ഷെയർ ഹോൾഡർമാരുടെ എണ്ണം നൽകിയിരിക്കുന്നു ഇന്ത്യയിലെ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ സംഖ്യയാണ് 2790000 പ്രൊമോട്ടർമാർ offer ചെയ്ത ഷെയറുകളുടെ ശതമാനം 0 ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഡാറ്റ നോക്കാം കഴിഞ്ഞ അഞ്ചുവർഷമായി ഉയർന്നതും കുറഞ്ഞതുമായ വിലയാണിത് നിലവിലുള്ള ഷെയറുകളുടെ എണ്ണം ദശലക്ഷക്കണക്കിന് നൽകിയിരിക്കുന്നു ഷെയറുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ അതെ കഴിഞ്ഞ രണ്ട് വർഷത്തെ നോക്കിയാൽ 2958 നിന്ന് 5921 ലേക്ക് വലിയ ഉയർച്ച ഉണ്ടായി കാരണം പുതിയ ബോണസ് ഷെയറുകൾ നൽകി ESOS പ്രകാരം ബോണസ് ഷെയർ നൽകി അതിനാൽ ഓരോ വർഷവും കുറച്ച് ESOS വെച്ച് നൽകപ്പെടുന്നു ഇത് മൊത്തം ഷെയറുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായി ഈ കാലയളവിലെ ശരാശരി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും നൽകിയിട്ടുണ്ട് മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിലും വർദ്ധനവുണ്ടായി അതായത് 23000 നിന്നും 187000 ആയാണ് ഉയർന്നത് ഒരു നിശ്ചിത കാലയളവിലെ ആകെ ശമ്പളം നൽകിയിട്ടുണ്ട് ഇതിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ തിരുത്തൽ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ജീവനക്കാരുടെ എണ്ണത്തിൽ ഞാൻ തിരുത്തൽ നടത്താം ഇനി നെറ്റ് സെയിൽസ് നെറ്റ് സെയിൽസ് ഡാറ്റ നിങ്ങൾക്ക് മാർച്ച് 14 മുതൽ കാണാൻ കഴിയും വാസ്തവത്തിൽ നെറ്റ് സെയിൽസ് അല്പം കുറഞ്ഞു കഴിഞ്ഞ വർഷം വീണ്ടും നെറ്റ് സെയിൽസ് വർദ്ധിച്ചു മറ്റു വരുമാനം സ്ഥിരതയുള്ളതാണ് ആദ്യ മൂന്നു വർഷങ്ങളിൽ അതിൽ വരുമാനം കുറയുകയും തുടർന്ന് അവ വീണ്ടും വർദ്ധിച്ചുതുടങ്ങി ഇത് എണ്ണ ബിസിനസിൽ ഉള്ളതാണ് അതിനാൽ എണ്ണ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുകയും വിൽപനയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു മൊത്തലാഭം അതിശയകരമാംവിധം സ്ഥിരതയുള്ള ഒരു അടയാളം കാണിക്കുന്നു മൊത്ത ലാഭം എല്ലാവർഷവും ചെറിയ രീതിയിൽ വർധിക്കുകയാണുണ്ടായത് എന്നാൽ കഴിഞ്ഞ വർഷം കുറയുകയും വീണ്ടും 544 വരെ ഉയരുകയും ചെയ്തു മൂല്യത്തകർച്ച ഗണ്യമായ തുകയാണ് TCS മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഉയർന്നത് എന്തുകൊണ്ട് പ്രധാനമായും ഇതൊരു നിർമ്മാണകമ്പനി ആയതിനാൽ അവർക്ക് ധാരാളം സ്ഥിര ആസ്തികൾ ഉണ്ടാകും അതിനാൽ മൂല്യതകർച്ച 112 നിന്നും 167 ആയി ഉയർന്നു പലിശ ചെലവും ഗണ്യമായി വർധിച്ചു നികുതിക്ക് മുമ്പുള്ള ലാഭം വർധിച്ചുകൊണ്ടിരിക്കുന്നു Minority Interest വളരെ ഉയർന്നതാണ് മാർച്ച് 14 അസാധാരണമായ ഒരു വരുമാനമുണ്ട് മറ്റു വർഷങ്ങളിലൊന്നും ഇത്തരമൊരു വരുമാനമില്ല അതുപോലെ കഴിഞ്ഞ രണ്ടു വർഷമായി നികുതി വർദ്ധിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നികുതി ക്ക് ശേഷമുള്ള ലാഭം ചെറിയ രീതിയിൽ വർദ്ധിച്ചു കഴിഞ്ഞ വർഷങ്ങളിലെ ഡിവിഡൻഡ് കണക്കുകളും നൽകിയിട്ടുണ്ട് അതിനാൽ നികുതിക്ക് ശേഷമുള്ള ലാഭവും നമ്മുടെ കണക്കുകൂട്ടലിൽ ആയി ലാഭവിഹിതത്തിൽ ഏകദേശ കണക്ക് എല്ലാ വർഷവും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് അവരുടെ വരുമാന ഡാറ്റയാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചില പ്രധാന അനുപാതങ്ങൾ കണക്കാക്കാം ആദ്യത്തേത് ഗ്രോസ് മാർജിൻ അനുപാതമാണ് എന്താണ് ഇതിൻറെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മൊത്ത ലാഭത്തെ വിൽപ്പന കൊണ്ട് ഹരിക്കുന്നു മാർച്ച് 14ന് ഇത് 8 ശതമാനമാണ് ദയവായി എല്ലാവർഷവും എത്രയാണെന്ന് കണക്ക് കൂട്ടുക അതിനാൽ ഇത് 8 പിന്നെ 9 17 15 13 എന്നിങ്ങനെ മാറുന്നു അതിനാൽ മാർച്ച് 16ന് അവരുടെ മൊത്ത ലാഭവിഹിതം ഗണ്യമായി വർധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു മൊത്തത്തിൽ അവർക്ക് നല്ല മാർജിൻ ഉണ്ട് എന്നിരുന്നാലും ഇത് മാറി കൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് നിരവധി ബിസിനസ്സുകൾ ഉണ്ട് അതിനാൽ എണ്ണവിലയിലെ മാറ്റം അവരുടെ മൊത്തം മാർജിനിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം അടുത്തത് EBDITA EBDITA പൂർണ്ണരൂപം എന്താണ് Depreciation പലിശ നികുതി കടാശ്വാസം എന്നിവയ്ക്ക് മുമ്പുള്ള വരുമാനം ആണിത് ഇതൊരു ക്യാഷ് ഓപ്പറേറ്റിങ് ലാഭമാണ് ഇപ്പോൾ നമുക്ക് മൊത്ത ലാഭം നൽകിയിട്ടുണ്ട് ഇതൊരു പ്രവർത്തന ലാഭം പോലെയാണ് മാത്രമല്ല നികുതി ക്ക് മുമ്പുള്ള ലാഭവും നമുക്ക് നൽകിയിട്ടുണ്ട് അതിനാൽ നികുതി ക്ക് മുമ്പുള്ള ലാഭത്തിൽ പലിശയും മൂല്യത്തകർച്ചയും കൂട്ടിയാൽ EBDITA ലഭിക്കും നമ്മൾ ഇതിനെ സെയിൽസ് ഉപയോഗിച്ച് ഹരിക്കാം അതിനാൽ മാർച്ച് 14 എന്ന് കാലയളവിൽ ഇത് 10 ശതമാനം ആണ് ഇത് ഒമ്പത് മുതൽ 20 വരെ സാവധാനത്തിൽ വർദ്ധിച്ചു പിന്നീട് പതിയെ കുറയുന്നു അവരുടെ പ്രവർത്തന ലാഭത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന പണം അറിയാൻ ഇത് വളരെ ഉപകാരപ്രദമാണ് അടുത്തത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണ് ഇതിൻറെ ഫോർമുല നെറ്റ് പ്രോഫിറ്റ് ഹരിക്കണം സെയിൽസ് എന്നാണ് എന്നാൽ ഇവിടെ വിൽപ്പനയ്ക്ക് പകരം നമ്മൾ മൊത്തം വരുമാനം എടുക്കാം അതിനാൽ നെറ്റ് പ്രോഫിറ്റ് 5 ശതമാനം ആയിരുന്നു 10 ശതമാനമായി ഉയർന്നു ഇപ്പോൾ 8 71 ശതമാനമാണ് ഗ്രോസ് മാർജിൻ കണക്കുകൂട്ടാൻ നമുക്കറിയാം പക്ഷേ ഇതിൽ മറ്റു വരുമാനവും കണക്കിലെടുക്കുന്നു ഇപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഡാറ്റയിലേക്ക് പോകാം ഇപ്പോൾ കഴിഞ്ഞതവണ ടിസിഎസ് നെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു ഇത് രസകരമാണ് കാരണം ഇതൊരു നിർമ്മാണക്കമ്പനിയാണ് ഇത് വിവിധതരം ആസ്തികളിൽ നിക്ഷേപിക്കുന്നതിനാൽ കൂടുതൽ കണക്കുകൾ ഉണ്ട് നിലവിലെ ആസ്തികൾ കുറയുകയും പിന്നീട് ഉയരുകയും ചെയ്തു നിലവിലെ ബാധ്യത വളരെ ഉയർന്നതാണ് മാർച്ച് 18 ലെ കണക്ക് നോക്കിയാൽ ഇത് മനസ്സിലാക്കാം Inventory ധാരാളം ആയിരിക്കുന്നു കാരണം ഇതൊരു നിർമ്മാണകമ്പനി ആയതിനാൽ ഒരുപാട് സാമഗ്രികൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ 48 നിന്നും 64 ആയി ഉയർന്നു വീണ്ടും അത് 56 ആയി കുറഞ്ഞു കടക്കാരുടെ തിരിച്ചടവ് സമയം വളരെ കുറവാണ് 85610 എന്നിങ്ങനെയാണ് ആയതിനാൽ അവരുടെ ക്രെഡിറ്റ് പോളിസി വളരെ കർശനം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ മിക്കതും പണത്തിനാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ക്രെഡിറ്റ് ലോ വിൽക്കുന്നു പക്ഷേ ഇപ്പോൾ 16 ദിവസമായി ഉയർന്നിരിക്കുന്നു ഇവരൊക്കെ ധാരാളം നെറ്റ് ഫിക്സഡ് അസറ്റ് ഉണ്ട് കൂടാതെ അവയിൽ സ്ഥിരമായ വർധനവും ഉണ്ട് ഇപ്പോൾ 5909ആണ് ഓഹരി മൂലധനം സ്ഥിരമായി തുടരുന്നു എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ ഇത് വർധിച്ചു ഫ്രീ റിസർവ് വളരെ ഉയർന്ന തുകയാണ് കാരണം സ്ഥിരമായി ഇവർ നല്ല ലാഭം നേടുന്നു Networth ന്യായമായും ഉയർന്നതാണ് ദീർഘകാല കടം ഒരു ഉൽപ്പാദന കമ്പനി ആയതിനാൽ അത് ടിസിഎസ് പോലെ 0 debt കമ്പനി അല്ല അവർക്ക് ഉയർന്ന ദീർഘകാല കടമുണ്ട് debt equity അനുപാതം വളരെ ഉയർന്നതല്ല നമുക്ക് ഇപ്പോൾ അനുപാതം കണക്കാക്കാം മൊത്തം ആസ്തി അഞ്ചുവർഷ കാലയളവിൽ ഇരട്ടിയായി Debt equity അനുപാതം അതുപോലെ നിലവിലെ അനുപാതം എന്നിവ കണക്കാക്കാം നിങ്ങൾക്ക് debt equity അനുപാതത്തിൻറെ ഫോർമുല അറിയാമല്ലോ ദീർഘ കാല കടത്തെ മൊത്തം Equityവുമായി ഹരിക്കുന്നു അപ്പോൾ 0 50 ലഭിക്കും ഇതിനെ ഒന്നുകിൽ ഭിന്നസംഖ്യ ആയി അല്ലെങ്കിൽ ശതമാനമായി കാണിക്കാം നമുക്ക് ഇത്തവണ ഭിന്നസംഖ്യ ആയി കാണിക്കാം ഒരു രൂപ ഇക്വിറ്റി ഉള്ളപ്പോൾ 50 പൈസ ദീർഘകാല കടമാണ് നിങ്ങൾ അഞ്ചു വർഷത്തിലെ എല്ലാ കണക്കും താരതമ്യം ചെയ്യുകയാണ് അനുപാതം 0 61 ആയി ഉയരുന്നു current ratio എന്നാൽ Current Assetകളെ Current Liabilities ആയി ഹരിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് വളരെ ഉയർന്ന സംഖ്യ ആയിരുന്നു 1 എന്നാൽ ഇപ്പോൾ 0 59 ആയി കുറഞ്ഞു Current Liabilities കളുടെ വർധനവാണ് ഇതിനു കാരണം നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോയോ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി 21 റിലയൻസ് Industry സ്റ്റാൻഡേർഡ് റേഷ്യോയേക്കാൾ വളരെ കുറവാണ് കറൻറ് റേഷ്യോ വ്യവസായത്തിന് ലിക്വിഡിറ്റി അല്പം പ്രശ്നമാണ് എങ്കിലും നിലവിലെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ ഉയർന്നതിനാൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും പ്രത്യേകിച്ചും അവസാനത്തെ രണ്ടുവർഷങ്ങളിൽ current Liabilities കളിൽ ശ്രദ്ധേയമായ വർധനവ് ഉണ്ടായിരിക്കുന്നത് അത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ മൂന്നാം ഭാഗത്തിൽ ക്യാഷ് ഫ്ലോ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ഗണ്യമായ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നു നിക്ഷേപങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക് ഏകദേശം സ്ഥിരമായി തന്നെ തുടരുന്നതായി കാണാം ഇത് ഗണ്യമായി നെഗറ്റീവ് ആയിരിക്കുന്നു ഇതൊരു പോസിറ്റീവ് അടയാളമാണ് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും മൊത്തം വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാമ്പത്തിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പണമൊഴുക്ക് ഏകദേശം സ്ഥിരമായിരിക്കും മൊത്തം പണമൊഴുക്ക് മൈനസ് 160 ആയിരിക്കുന്നു ഇത് വളരെ ഉയർന്ന സംഖ്യയല്ല പിന്നീട് അത് മൈനസ് 220 ആയി മാറി അവസാനവർഷം ഇത് 12660 ആയിരിക്കുന്നു Now let us calculate some of the ഇപ്പോഴും നമുക്ക് ചില സംയോജിത അനുപാതങ്ങൾ കണക്കാക്കാം ആദ്യത്തേത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇതിൻറെ ഫോർമുല എന്താണ് അതിനാൽ പലിശ അടയ്ക്കാൻ എത്ര തവണ അവർ സമ്പാദിച്ചു ഇൻട്രസ്റ്റ് ഡിനോമിനേറ്റ്റിലും ലാഭത്തിന് ന്യൂമറേറ്ററിലും കാണിക്കുന്നു ഇതിനായി ഏത് ലാഭം ആണ് നമ്മൾ എടുക്കുക PAT എടുക്കുമോ ഇല്ല നികുതിക്കും പലിശയ്ക്കും മുന്നേയുള്ള ലാഭത്തിൽ നിന്നാണ് പലിശ അടക്കേണ്ടത് അതിനാൽ നമുക്ക് PBIT കണക്കാക്കാം നമുക്ക് PBT നൽകിയിട്ടുണ്ട് അതിൻറെകൂടെ പലിശ കൂട്ടിയാൽ PBIT ലഭിക്കും ഈ ലാഭത്തിൽ നിന്നുമാണ് പലിശ നൽകേണ്ടത് ഇപ്പോൾ 8 28 ലഭിക്കും ഉയർന്ന ലാഭം ലഭിക്കുന്നതിനാൽ ഈ പലിശ അവർക്ക് കവർ ചെയ്യാൻ സാധിക്കും മുന്നേ അത് 8 times ആയിരുന്നത് ഇപ്പോൾ പതിയെ കുറഞ്ഞു വരുന്നു അടുത്തത് കാര്യക്ഷമതയും ആയി ബന്ധപ്പെട്ട അനുപാതമാണ് ഇതിനുമുമ്പ് sales to fixed assets ratioഅനുപാതത്തെ പറ്റി നമ്മൾ പറയുകയുണ്ടായി അതിൽ നിങ്ങളുടെ സ്ഥിര ആസ്തികൾ വിൽപന സൃഷ്ടിക്കുന്നതിന് എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുവെന്നാണ് കാണിക്കുന്നത് ഇതിനായി വിൽപ്പന സ്ഥിര ആസ്തിയുമായി ഹരിക്കുന്നു ഇത് ഓപ്പറേറ്റിങ്ങ് മായി ബന്ധപ്പെട്ടതിനാൽ നമ്മൾ പ്രധാനമായും പരിഗണിക്കുന്നത് വില്പന മാത്രമാണ് മൊത്തം വരുമാനം എടുക്കുന്നില്ല എന്താണ് ഇവിടെ കാണാനാകുന്നത് അനുപാതത്തിൽ ഗുരുതരമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ഇത് 1 81 ആയിരുന്നു മാർച്ച് 16 മുതൽ അനുപാതം വീണ്ടും കുറഞ്ഞ അത് 0 66 എന്ന നിലയിലായി ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ വിൽപ്പനയിൽ വലിയ വർധന ഇല്ല എന്നാൽ സ്ഥിര ആസ്തികൾ ഗണ്യമായി വർദ്ധിച്ചു യഥാർത്ഥത്തിൽ വിൽപന ഇടിയുകയാണ് ചെയ്തത് ഇപ്പോൾ വിൽപ്പന വർധിക്കുന്നു എന്നാൽ ഇത് വളരെ സങ്കീർണ്ണമായ ഒരു കമ്പനിയാണ് അതിനാൽ നമുക്ക് നേരിട്ട് ഒന്നും അറിയാൻ കഴിയില്ല അവർ പുതിയ സ്ഥിര ആസ്തികൾ നിർമ്മിക്കുന്നുണ്ടാകാം പ ക്ഷെ ഇപ്പോൾ ലഭ്യമായ നിലവിലെ ഡാറ്റ കാണിക്കുന്നത് ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറഞ്ഞു എന്നാണ് ഇപ്പോൾ ROTA അതിൽ ലാഭം സൃഷ്ടിക്കാൻ മൊത്തം ആസ്തികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കണക്കാക്കാം അതിനായി നമ്മൾ PAT മൊത്തം ആസ്തിയുമായി താരതമ്യം ചെയ്യുന്നു അപ്പോൾ 0 52 ലഭിക്കും ഇതിനെ 0 05 എന്നു കാണിക്കാം കാരണം ശതമാനത്തിൽ പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ അർഥവത്താണ് അതിനാൽ 5 ശതമാനം വരുമാനം 4 42 ആയി കുറഞ്ഞു ഇതു വലിയ ഇടിവ് അല്ല പക്ഷേ മൊത്തം ആസ്തിയിൽ നിന്നുള്ള വരുമാനത്തിൽ നേരിയ ഇടിവ് ആണിത് അടുത്തത് ഇക്വിറ്റി നിന്നുള്ള വരുമാനമാണ് ഇക്വിറ്റി എന്നാൽ ഉടമസ്ഥരുടെ ഫണ്ട് ആണ് അതിനാൽ അവർക്ക് എത്ര ലാഭം സൃഷ്ടിക്കാൻ കഴിയും ഇതിനായി PAT Networth ആയി താരതമ്യം ചെയ്യുന്നു അപ്പോൾ 11 32 ശതമാനമാണ്Return ഇപ്പോഴിത് 12 നിങ്ങൾ ടി സി എസ് എസിനെ ഓർക്കുന്നു എങ്കിൽ ഇക്വിറ്റിയിൽ നിന്നുള്ള ഈ വരുമാനം റിലയൻസിനു കുറവാണ് അടുത്തതായി പറയാനുള്ളത് അത് മൂലധനത്തിലേക്കുള്ള റിട്ടേൺ ആണ് ROCE എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ROI എന്ന് വിളിക്കുന്നു അവിടെ നമ്മൾ മൊത്തം വരുമാനം എടുക്കും കൂടാതെ ഡിനോമിനേറ്റ്റിൽ മൊത്തം ഫണ്ടുകളുടെ കടവും ഇക്വിറ്റിയും കാണിക്കും ഇതിൻറെ ഫോർമുല ഓർക്കുന്നുണ്ടോ ന്യൂമറേറ്ററിൽ PBT അതിൻറെ കൂടെ പലിശയും കൂട്ടുന്നു എന്നിട്ട് ഇട്ട് ദീർഘകാല കടവും ഇക്വിറ്റിയും കൊണ്ട് ഹരിക്കും അപ്പോൾ 10 61 ശതമാനം ലഭിക്കും ടിസിഎസ്ൻറെ കാര്യത്തിൽ ഇത് ഏതാണ്ട് 0 Debt കമ്പനിയായിരുന്നു എന്നാൽ ഒരു നിർമാണ കമ്പനിയായ റിലയൻസിന് ന്യായമായ അളവിലുള്ള കടമുണ്ട് അതിനാൽ മൂലധനത്തിന് വരുമാനം അല്പം കുറവാണെങ്കിലും ഇപ്പോൾ ഒരു കാലയളവിൽ വരുമാനം 13 ശതമാനം വരെ ഉയർന്നതായും നിങ്ങൾക്ക് കാണാൻ കഴിയും ഉൽപ്പാദന സംരംഭത്തെ പറ്റി പഠിക്കുന്നത് രസകരമാണ് ഓർക്കുക കാരണം നിങ്ങൾക്ക് കടവും ഇക്വിറ്റിയും അതിലുണ്ടാകും മൂലധന ഘടനയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു മൂലധന ഘടന നിങ്ങൾക്കറിയാമെങ്കിൽ ഉയർന്ന അളവിലുള്ള കടമുണ്ടെങ്കിൽ റിട്ടേൺ വർദ്ധിക്കുന്നു അത് Trading on Equity എന്നറിയപ്പെടുന്നു കടത്തിൻറെ ഒരു തലത്തിലേക്ക് പോകുന്നതിലൂടെ കമ്പനിക്ക് മൂലധനത്തിന് വരുമാന മെച്ചപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്നാൽ ടിസിഎസ് എൻറെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ നികുതികളുടെ പ്രഭാവംമൂലധന വരുമാനത്തിന് വളരെ ഗുണകരമായിരുന്നു അടുത്തതായി മൊത്തം വിൽപ്പനയും മൊത്തം പ്രവർത്തനം മൂലധനവും ആയുള്ള താരതമ്യം ആണ് പ്രവർത്തന മൂലധനം എന്നാൽ CA നിന്നും CL കുറയ്ക്കുക ആ തുകയെ വിൽപ്പനയുമായി ഹരിക്കുമ്പോൾ 0 08 കിട്ടും ഇതിനെ ശതമാനമായും കാണിക്കാം അപ്പോൾ ഏകദേശം 8 ശതമാനം ഇത് വളരെ രസകരമാണ് എട്ടു ശതമാനത്തിൽ നിന്ന് 32 ശതമാനത്തിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോൾ ഇത് എന്താണ് കാരണം കാരണം അവരുടെ നിലവിലെ ബാധ്യതകൾ ഗണ്യമായി വർധിച്ചു അതിനാൽ നിലവിലെ ആസ്തികളും ബാധ്യതകളും നോക്കൂ ഇപ്പോൾ നിലവിലുള്ള ബാധ്യതകൾ നിലവിലെ ആസ്തികളെക്കാൾ വളരെ കൂടുതലാണ് അതിനാൽ അവ ഒരു നെഗറ്റീവ് പ്രവർത്തനമൂലധനം സാഹചര്യത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഈ അനുപാതം നെഗറ്റീവ് ആയി തീർന്നതിൻറെ കാരണം ഇതാണ് അതിനാൽ ശരിക്കും രസകരമായ അനുപാതം ആണിത് 8 ആയിരുന്നു പിന്നീട് ഒരു ശതമാനത്തിൽ താഴെയായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഇത് നെഗറ്റീവ് ഫിഗറായി നിലവിലെ അനുപാതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് 1 31 നിന്ന് 0 59 വരെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം ഇതേ ആഘാതം തന്നെയാണ് വിൽപ്പനയിലും അതിനാൽ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത സെഷനിൽ ശേഷിക്കുന്ന അനുപാദങ്ങളെ പറ്റി തുടരാം